റെസിസ്റ്റീവ് രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളുടെ റെസിപ്രൊസിറ്റി നമ്മൾ തെളിയിച്ചിട്ടുണ്ട് എന്നാൽ മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ടുകൾക്ക് മാത്രം ഉള്ളതിനാണ് അത് ഇപ്പോൾ ഇത് എങ്ങനെ നാല് ടെർമിനൽ റെസിസ്റ്റീവ് രണ്ട് പോർട്ടുകളിലേക്ക് നീട്ടാൻ കഴിയുമെന്ന് ഞാൻ പറയാം അതിനാൽ നമുക്ക് ഇതുപോലെ ഒരു നാല് ടെർമിനൽ രണ്ട് പോർട്ട് ഉണ്ടെന്നും അതിൽ റെസിസ്റ്ററുകൾ മാത്രമാണെന്നും പറയാം ഇപ്പോൾ നമ്മൾ തെളിയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്താണ് നാല് പാരാമീറ്ററുകളിൽ ഏതെങ്കിലുമൊന്നിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇത് തെളിയിക്കാനാകും ഈ നെറ്റ്വർക്കിനായി z12 z21 തെളിയിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുവെന്ന് പറയാം അപ്പോൾ ശരിക്കും എന്താണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഞാൻ I1 നെ പോർട്ട് 1 ലേക്ക് കണക്ട് ചെയ്യുന്നു പോർട്ട് 2 ലേക്ക് ഒന്നുമില്ല ഞാൻ പോർട്ട് 2 നെ ഓപ്പൺ സർക്യൂട്ട് ആയി വിടുന്നു വ്യക്തമായും ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പോർട്ട് 2 ൽ പുറത്തുവരുന്നത് z21 × I1 ആണ് ഇത് z പാരാമീറ്ററുകളുടെ നിർവചനത്തിൽ നിന്നുള്ളതാണ് അതുപോലെ ഞാൻ പോർട്ട് 2 ലേക്ക് I2 കണക്ട് ചെയ്ത് പോർട്ട് 1 ഓപ്പൺ സർക്യൂട്ട് ആക്കുകയാണ് എനിക്ക് ഇവിടെ ലഭിക്കുന്ന വോൾട്ടേജ് z12 × I2 ആയിരിക്കും ഇപ്പോൾ എനിക്ക് തെളിയിക്കേണ്ടത് ഇതാണ് ഞാൻ ഇതിനെ V2 എന്ന് വിളിക്കട്ടെ ഇവ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയാൻ ഞാൻ ഇതിനെ I2 hat എന്ന് വിളിക്കട്ടെ അപ്പോൾ ഇവിടെയുള്ള വോൾട്ടേജ് z12 × I2 hat ആയിരിക്കും ഞാൻ ആ വോൾട്ടേജ് V1 hat കൊണ്ട് സൂചിപ്പിക്കും അതിനാൽ hat രണ്ടാമത്തെ കേസിനെ സൂചിപ്പിക്കുന്നു hat ഇല്ലാത്തത് ആദ്യത്തെ കേസാണ് അതിനാൽ അടിസ്ഥാനപരമായി V2 I1 എന്നത് z21 ആയിരിക്കും അത് z12 ന് തുല്യമാണെന്ന് ഞാൻ തെളിയിക്കേണ്ടതുണ്ട് അതായത് V1 hat I2 hat അതിനാൽ പ്രധാനമായും ഒരു വശത്ത് നിന്ന് മറുവശത്തേക്ക് ഓപ്പൺ സർക്യൂട്ട് ട്രാൻസ്മിഷൻ പാരാമീറ്ററുകൾ കണക്കാക്കുമ്പോൾ അതായത് പോർട്ട് 1 മുതൽ പോർട്ട് 2 വരെയും പോർട്ട് 2 മുതൽ പോർട്ട് 1 വരെയും ഇരുവശത്തും തുല്യമാണെന്ന് ഞാൻ തെളിയിക്കേണ്ടത് ഇതാണ് അതിനാൽ നാല് ടെർമിനൽ രണ്ട് പോർട്ടുകൾക്കുള്ള റെസിപ്രൊസിറ്റി തെളിയിക്കുന്നത് ഇങ്ങനെയാണ് മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ടുകളിൽ നിന്ന് എനിക്ക് ഇതിനകം കിട്ടിയിട്ടുള്ള ഫലങ്ങൾ ഞാൻ ഉപയോഗിക്കും മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ടുകൾക്കുള്ള തെളിവ് എന്റെ പക്കലുള്ളതിനാൽ ഞാൻ എന്തുചെയ്യും അതായത് പൊതുവായ ഒരു ടെർമിനൽ ഉള്ള രണ്ട് പോർട്ടുകൾക്കു ഈ 1 പ്രൈമിനെ ഞാൻ റഫറൻസ് നോഡായി നിർവചിക്കുന്നതുപോലെ തന്നെ ഇതും നിർവ്വചിക്കാൻ ശ്രമിക്കും അതിനാൽ ഇത് പോർട്ട് 1 ആണ് നമ്മൾക്ക് ഇതിനകം അറിയാവുന്നതുപോലെ എന്റെ യഥാർത്ഥ രണ്ടാമത്തെ പോർട്ട് 2 നും 2 പ്രൈമിനും ഇടയിലാണ് പക്ഷേ തീർച്ചയായും അത് മറ്റൊരു പോർട്ട് നിർവചിക്കുന്നതിൽ നിന്ന് എന്നെ തടയുന്നില്ല അതിനിടയിലുള്ളതാണ് ഇത് ഞാൻ ഇതിനെ A എന്ന് വിളിക്കട്ടെ അതായത് നോഡ് എയ്ക്കും ഇടയ്ക്കും റഫറൻസ് നോഡ്നും ഇടയ്ക്കു ആണ് ഇത് അതിനാൽ ഞാൻ ഈ പോർട്ടിനെ A എന്ന് വിളിക്കുന്നു ഈ 2 പ്രൈം ഞാൻ B എന്ന് ലേബൽ ചെയ്യും ഞാൻ ഈ പോർട്ട് B എന്ന് വിളിക്കും എനിക്ക് താൽപ്പര്യമുള്ള യഥാർത്ഥ രണ്ടാമത്തെ പോർട്ട് 2 നും 2 പ്രൈമിനും ഇടയിലാണ് അതിനാൽ അതാണ് എനിക്ക് തെളിയിക്കേണ്ടത് ഇപ്പോൾ അടിസ്ഥാനപരമായി ഞാൻ ഒരു പൊതു ടെർമിനൽ ഉള്ള മൂന്ന് പോർട്ടുകൾ നിർവചിച്ചു ഈ 1 പ്രൈം സാധാരണ ടെർമിനലാണെന്നും ഇത് ഈ ടെർമിനൽ 1 നും റഫറൻസ് നോഡിനും ഇടയിലാണെന്നും നിർവചിച്ചിരിക്കുന്നു അത് പോർട്ടിന്റെ ടെർമിനൽ 2 ൽ ഒന്നാണ് മറ്റൊരു പോർട്ട് ആയ റഫറൻസ് നോഡ് ആണ് ഇത് നമുക്ക് ഇതിനകം ഉള്ള മറ്റ് രണ്ട് പോർട്ടുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചറിയാൻ ഞാൻ ആ പോർട്ടിനെ A എന്നും ടെർമിനൽ 2 പ്രൈം റഫറൻസ് നോഡിനും ഇടയിൽ പോർട്ട് ബി എന്നും വിളിക്കും അതിനാൽ ഇപ്പോൾ ഞാൻ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ പോർട്ട് 1 പോർട്ട് എ അല്ലെങ്കിൽ പോർട്ട് 1 പോർട്ട് ബി എന്നിങ്ങനെ പറയാം അതിനാൽ ഇവ ഓരോന്നും മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ട് ആണ് റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണെന്ന് ഓർക്കുക എനിക്ക് എവിടെ വേണമെങ്കിലും പോർട്ടുകൾ നിർവചിക്കാം എനിക്ക് നൽകിയിരിക്കുന്ന പോർട്ടുകൾ 2 നും 2 പ്രൈംനും ഇടയിലാണ് ഒടുവിൽ ആ പോർട്ടിനായി ഞാൻ റെസിപ്രൊസിറ്റി തെളിയിക്കും പക്ഷേ ഞാൻ ഇപ്പോൾ പോർട്ട് 1 ന്റെ അതേ പൊതുവായ ടെർമിനലുള്ള മറ്റ് രണ്ട് പോർട്ടുകൾ നിർവചിക്കുന്നു അതിനാൽ എനിക്ക് ഈ പോർട്ടുകളിൽ ഏതെങ്കിലും രണ്ട് എടുത്ത് അതിൽ മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ടുകൾക്കായി ഉണ്ടായിരുന്ന എന്റെ മുമ്പത്തെ ഫലം ഉപയോഗിക്കാം അതിനാൽ മൂന്ന് ടെർമിനൽ രണ്ട് പോർട്ടുകൾക്കായുള്ള എന്റെ മുമ്പത്തെ ഫലം എന്താണ് പറയുന്നത് ഞാൻ ഈ കേസ് എടുത്താൽ അതായത് പോർട്ട് 1 പോർട്ട് എ എന്നിവ രണ്ട് പോർട്ട് നെറ്റ്വർക്കുകളായി എടുക്കുന്നു z1A എന്നത് zA1 ആണെന്ന് എനിക്കറിയാം അതുപോലെ ഞാൻ പോർട്ട് 1 ഉം പോർട്ട് B യും എന്റെ രണ്ട് പോർട്ടുകളായി എടുക്കുകയാണെങ്കിൽ എനിക്ക് z1B zB1 എന്ന് ലഭിക്കും അതിനാൽ ഇപ്പോൾ ഞാൻ രണ്ട് കേസുകൾ പരീക്ഷിക്കട്ടെ ആദ്യ സന്ദർഭത്തിൽ ഞാൻ പോർട്ട് 1 ലേക്ക് I1 പ്രയോഗിക്കുകയും പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ടഡ് ആയി വിടുകയും ചെയ്യും ഇത് റഫറൻസ് നോഡായി നിർവചിക്കട്ടെ ഞാൻ പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ആയി വിട്ടാൽ പോർട്ട് എയും ഓപ്പൺ സർക്യൂട്ട് ആണ് കാരണം ഇതിനും റഫറൻസ് നോഡിനും ഇടയിൽ എനിക്ക് ഒന്നുമില്ല ഓർക്കുക ഇതാണ് ടെർമിനൽ എ എന്റെ റഫറൻസ് നോഡ് അവിടെ അവസാനിച്ചു ഇതാണ് ടെർമിനൽ ബിയും റഫറൻസ് നോഡും ഞാൻ സർക്യൂട്ട് 2 പ്രൈമിലേക്ക് തുറക്കുന്നതിനാൽ എനിക്ക് പോർട്ട് എയിലും പോർട്ട് ബിയിലും ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ട് അപ്പോൾ പോർട്ട് എയിൽ ദൃശ്യമാകുന്ന വോൾട്ടേജ് എന്താണ് വ്യക്തമായും പോർട്ട് 1 നെ മറ്റൊരു പോർട്ടായും പോർട്ട് A യെ മറ്റൊരു പോർട്ടായും ഞാൻ കരുതുന്നു അതിനാൽ ഞാൻ I1 നെ പോർട്ട് 1 ലേക്ക് ഇൻജക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ പുറത്തുവരുന്നത് zA1 × I1 ആണ് zA1 എന്നത് പോർട്ടിൽ നിന്നുള്ള പരാമീറ്ററാണ് അതുപോലെ ഇവിടെ പോർട്ട് ബിയിൽ എനിക്കു zB1 × I1 ഉണ്ടായിരിക്കും അതിനാൽ ആദ്യം 1 A എന്നിവ രണ്ട് പോർട്ടുകളിൽ ഒന്നായി കണക്കാക്കി 1 B എന്നിവ രണ്ട് പോർട്ടുകളിൽ ഒന്നായി കണക്കാക്കി ഞാൻ ഈ രണ്ട് വോൾട്ടേജുകളും കണക്കാക്കുന്നു ഈ രണ്ട് പോർട്ടുകളിലേക്കും ഞാൻ ഒന്നും ബന്ധിപ്പിക്കാത്തതിനാൽ അത് ശരിയാണ് നിങ്ങൾക്ക് ശരിക്കും വേണമെങ്കിൽ ഇതിനും അതിനും രണ്ട് വ്യത്യസ്ത ചിത്രങ്ങൾ വരയ്ക്കാം എന്നാൽ ഞാൻ I1 പ്രയോഗിക്കുമ്പോൾ എനിക്ക് ഇവിടെ കുറച്ച് വോൾട്ടേജും അവിടെ മറ്റ് കുറച്ച് വോൾട്ടേജും ലഭിക്കും ഇത് രണ്ട് പോർട്ട് പാരാമീറ്ററുകൾക്കിടയിൽ എനിക്ക് പ്രകടിപ്പിക്കാൻ കഴിയും അതായത് പോർട്ട് 1 പോർട്ട് എ പോർട്ട് 1 പോർട്ട് ബി എന്നിവയ്ക്കിടയിൽ ഇപ്പോൾ എന്റെ യഥാർത്ഥ രണ്ടാമത്തെ പോർട്ട് വോൾട്ടേജ് V2 എന്താണ് ഇത് V2 ആണ് ഈ ലൂപ്പിന് ചുറ്റും KVL ഉപയോഗിക്കുന്നതിലൂടെ V2 എന്നത് zA1 മൈനസ് zB1 × I1 ആയിരിക്കുമെന്ന് നിങ്ങൾ വ്യക്തമായി കാണുന്നു അതിനാൽ ഞാൻ ഇവിടെ ഒരു കറന്റ് പ്രയോഗിച്ച് പോർട്ട് 2 ലെ വോൾട്ടേജ് കണ്ടെത്തി ഇപ്പോൾ ഞാൻ മറ്റൊരു കേസ് എടുക്കട്ടെ അവിടെ ഞാൻ സർക്യൂട്ട് പോർട്ട് 1 തുറക്കുന്നു അവിടെ I2 hat പ്രയോഗിക്കുമ്പോൾ എനിക്ക് V1 hat അളക്കണം അതിനാൽ വീണ്ടും ഇത് തീർച്ചയായും അതേ നെറ്റ്വർക്ക് ആണ് എല്ലാ നോഡുകളും എടുക്കുന്ന അതേ റെസിസ്റ്റീവ് നെറ്റ്വർക്ക് ആണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത മുൻ സിദ്ധാന്തങ്ങളിലൊന്ന് ഉപയോഗിക്കാനുള്ള അവസരം കൂടിയാണിത് ഞാൻ ഇനിപ്പറയുന്നത് ചെയ്യും ഈ പോയിന്റ് റഫറൻസ് നോഡായി എന്റെ കണക്കുകൂട്ടലുകൾ പ്രവർത്തിക്കുന്നു കൂടാതെ ഈ നോഡ് റഫറൻസ് നോഡായി പോർട്ട് എ പോർട്ട് ബി എന്നീ രണ്ട് പോർട്ടുകൾ ഞാൻ നിർവചിച്ചിട്ടുണ്ട് ഇത് പോർട്ട് എ ആയിരുന്നു ഇത് ഈ ടെർമിനലിനും റഫറൻസ് നോഡിനും ഇടയിലായിരുന്നു ഇത് പോർട്ട് ബി ആയിരുന്നു ഇത് ഈ ടെർമിനലിനും റഫറൻസ് നോഡിനും ഇടയിലാണ് അതിനാൽ ഞാൻ ചെയ്യുന്നത് ഇനിപ്പറയുന്നതാണ് ഞാൻ ഇത് പകർത്തി തുടർന്ന് കറന്റ് സ്രോതസ്സു ഞാൻ വിഭജിക്കും I2 hat ന് സീരിയസിൽ സമാനമായ രണ്ട് കറന്റ് സ്രോതസ്സുകളുണ്ട് അതിനാൽ എനിക്ക് ഇത് ചെയ്യാൻ കഴിയും കാരണം ഒരേ പോലെയുള്ള രണ്ട് കറന്റ് സ്രോതസ്സുകളുടെ സീരിസ് സംയോജനം ഒരുപോലെയാണ് നമ്മൾ ഇത് മുമ്പത്തെ സിദ്ധാന്തത്തിൽ കണ്ടു കറന്റ് സ്രോതസ്സുകളുടെ വിഭജനമായി നമ്മൾ ചർച്ച ചെയ്തതും സർക്യൂട്ടിലെ ഏത് പോയിന്റും ഈ നോഡുമായി ബന്ധിപ്പിക്കാൻ കഴിയുമെന്നും നമ്മൾ കണ്ടു അത് റഫറൻസ് നോഡിലേക്ക് ബന്ധിപ്പിക്കാൻ ഞാൻ തിരഞ്ഞെടുക്കും ഇപ്പോൾ ഞാൻ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതിലൂടെ ഈ അപ്പർ കറന്റ് സോഴ്സ് അടിസ്ഥാനപരമായി പോർട്ട് എയിൽ എക്സൈറ്റഡ് ആവുകയും ഈ ലോവർ കറന്റ് സോഴ്സ് പോർട്ട് ബിയിൽ എക്സൈറ്റഡ് ആവുന്നതായും ഞാൻ കാണുന്നു പോർട്ട് എ പോർട്ട് 1 പോർട്ട് ബി പോർട്ട് 1 എന്നിവയ്ക്കിടയിലുള്ള ഫലങ്ങൾ എനിക്ക് ഇതിനകം അറിയാം റെസിപ്രൊസിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അതിനാൽ ഇപ്പോൾ എനിക്ക് ഇവിടെ രണ്ട് സ്രോതസ്സുകൾ ഉള്ളതിനാൽ ഞാൻ സൂപ്പർ പൊസിഷൻ ഉപേക്ഷിക്കുന്നു അതിനാൽ ഞാൻ ഇതിനെ രണ്ടായി വിഭജിക്കും അവിടെ എനിക്ക് അപ്പർ കറന്റ് സോഴ്സ് മാത്രമേ അവിടെ സജീവമായിട്ടുള്ളൂ അവിടെ ലോവർ കറന്റ് സോഴ്സ് മാത്രമേ സജീവമായിട്ടുള്ളൂ ഇപ്പോൾ പോർട്ട് 1 ൽ എനിക്ക് ലഭിക്കുന്ന വോൾട്ടേജ് എത്രയാണ് അതിനാൽ ഇപ്പോൾ പോർട്ട് A ന് I2 hat നൽകുന്നു അതിനാൽ പോർട്ട് 1 ൽ എനിക്ക് z1A × I2 hat ലഭിക്കും ഈ കറന്റ് സോഴ്സ് മാത്രം സജീവമാണ് നിങ്ങൾ താഴത്തെ ചിത്രം നോക്കുകയാണെങ്കിൽ കറന്റ് സ്രോതസ്സുകളുടെ ദിശ കാരണം പോർട്ട് B മൈനസ് I2 hat ഉപയോഗിച്ച് എക്സിറ്റ്ട് ആവുന്നു അതിനാൽ ഇവിടെ പോർട്ട് A I2 hat ഉപയോഗിച്ച് എക്സൈറ്റ്ട് ആവുന്നു ഇവിടെ പോർട്ട് ബി മൈനസ് I2 hat ഉപയോഗിച്ച് എക്സൈറ്റ്ട് ആവുന്നു കാരണം ബി പോർട്ടിലേക്ക് ഒഴുകുന്നത് മൈനസ് I2 hat ആണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് മൈനസ് z1B × I2 hat ആണ് ഇപ്പോൾ യഥാർത്ഥ കേസിൽ ഈ രണ്ട് സ്രോതസ്സുകളും സജീവമാണ് അതിനാൽ യഥാർത്ഥ വോൾട്ടേജ് V1 hat ഈ വോൾട്ടേജിന്റെയും ആ വോൾട്ടേജിന്റെയും ആകെത്തുകയാണ് അതിനാൽ ഇവിടെ വോൾട്ടേജ് z1A × I2 hat മൈനസ് z1B × I2 hat അല്ലെങ്കിൽ z1A മൈനസ് z1B × I2 hat ആയിരിക്കും അതിനാൽ വളരെ ലളിതമായി ഞാൻ കറന്റ് സോഴ്സ് വിഭജിച്ചു ഒരു സമയത്ത് ഒരു കറന്റ് സോഴ്സ് എടുത്തു ഔട്ട്പുട്ടുകൾ ലഭിച്ചു പോർട്ട് 2 എക്സൈറ്റ് ചെയ്യുമ്പോൾ പോർട്ട് 1 ൽ ഇത് എന്റെ ഔട്ട്പുട്ടായി ഉണ്ട് പോർട്ട് 1 ഉം പോർട്ട് എ ഉം എൻറെ റെസിപ്രൊക്കലിനുള്ള പോർട്ടും പോർട്ട് 1 ഉം പോർട്ട് ബി യും എൻറെ റെസിപ്രൊക്കലിനുള്ള പോർട്ടും ആണെന്ന് എനിക്കറിയാം അതിനാൽ ഇത് മറ്റൊന്നുമല്ല zA1 മൈനസ് zB1 × I2 hat നു സമാനമാണ് അതിനാൽ ഇവിടെ വികസിപ്പിച്ചെടുത്ത വോൾട്ടേജ് V1 hat എന്നത് zA1 മൈനസ് zB1 × I2 hat നു തുല്യമാണ് നിങ്ങൾക്ക് ഇതിനകം തന്നെ ഇവിടെ റെസിപ്രൊസിറ്റി കാണാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു എന്നാൽ പൂർണതയ്ക്കായി z21 പാരാമീറ്റർ പോർട്ട് 2 ഓപ്പൺ സർക്യൂട്ട് ഉള്ള V2 I1 ആയിരിക്കും zA1 മൈനസ് zB1 ആക്കി മാറ്റിയ സർക്യൂട്ടിലെ V2 I1 ആയിരിക്കും അതിനാൽ അത് Z21 ന് തുല്യമാണ് അതിനാൽ ഒരു ലളിതമായ വിപുലീകരണത്തിലൂടെ നമുക്ക് പൊതുവായ നാല് ടെർമിനൽ റെസിസ്റ്റീവ് 2 പോർട്ടുകൾക്കായുള്ള റെസിപ്രൊസിറ്റി തെളിയിക്കാനാകും അതിനാൽ ഇത് അടിസ്ഥാനപരമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു z12 എന്നത് z21 ന് തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മൂന്ന് ടെർമിനൽ റെസിസ്റ്റീവ് രണ്ട് പോർട്ടുകളിൽ റെസിപ്രൊസിറ്റി ഉപയോഗിച്ചു കറണ്ട് സ്രോതസ്സ് വിഭജിക്കുന്നതിന് മുമ്പത്തെ സിദ്ധാന്തവും സൂപ്പർ പൊസിഷനും നമ്മൾ ഉപയോഗിക്കുന്നു കാരണം നമ്മൾ മൂന്ന് ടെർമിനൽ 2 പോർട്ടുകളിൽ റെസിപ്രൊസിറ്റി ഉപയോഗിക്കുന്നതിനാൽ ഒരു പൊതു നോഡുള്ള മറ്റ് ചില പോർട്ടുകൾ റഫറൻസ് നോഡായി നിർവചിക്കേണ്ടതുണ്ട് നമ്മൾക്ക് അത് ചെയ്യാൻ കഴിഞ്ഞു അത് വ്യക്തമാണെന്ന് പ്രതീക്ഷിക്കുന്നു